കഴിഞ്ഞ വീഡിയോയിൽയുഎഫ്ഡികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു R ഫാക്ടറൈസേഷൻ അവസാനിപ്പിക്കുന്ന ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ അത് ഒരു യുഎഫ്ഡിയാണെന്ന് പറഞ്ഞു എല്ലാ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളും പ്രൈം ആണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് നമ്മൾ PID കൾ UFD കളാണെന്നും കാണിച്ചു നമ്മുടെ അടുത്ത ഭാഗം UFD കളുടെ പഠനത്തിൽ ZX ഒരു UFD ആണെന്ന് കാണിക്കുന്നതാണ് അവസാന വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചർച്ച ആരംഭിച്ചു അതിൽ QX നെ പരിഗണിക്കുകയാണ് ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു Q എന്നത് Z ന്റെ കോഷ്യന്റ് ഫീൽഡ് ആണ് QX ൽ UFD പ്രോപ്പർട്ടി ഉണ്ട്കാരണം Q ഒരു ഫീൽഡ് ആണ് Q ലെ ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗാണ് QX ഇത് ഒരു PID ആണ് അതിനാൽ ഇത് ഒരു UFD ആണ് പ്രത്യേകിച്ചും ആ റിങ്ങിൽ എല്ലാ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളും പ്രൈം ആണ് ZX ലെ എല്ലാ ഘടകങ്ങളും Q X ന്റെ ഒരു ഘടകമായി കണക്കാക്കാം അതിനാൽനമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നു എങ്ങനെയെങ്കിലും ZX ൽ എല്ലാ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളും പ്രൈം ആണെന്ന് നിഗമനം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് ഈ വിശകലനവും ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന തെളിവും ഏതൊരു യുഎഫ് ഡിക്കും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസഡ് മാത്രമല്ല അവസാനം ഇസഡ് എക്സ് ഒരു യുഎഫ് ഡി ആണെന്ന് നമ്മൾ നിഗമനം ചെയ്യുമ്പോൾ R ഒരു UFD ആയ ഉടൻ തന്നെ RX ഒരു UFD ആണെന്നും കാണിക്കുന്നു ഇനിപ്പറയുന്ന നിർവചനം പരിഗണിച്ച് നമുക്ക് ഇന്ന് ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ മുഴുവൻ വീഡിയോയും പൂർണ്ണസംഖ്യയുടെ പോളിനോമിയൽ എന്താണ് റാഷണൽ പോളിനോമിയൽ എന്താണ് ZX ൽ ശരിയായ എന്തെങ്കിലും അത് QX ൽ ശരിയാണോ എന്തെങ്കിലും QXൽ ശരിയാണ് ആണെങ്കിൽ അത് ZX ൽ ശരിയാണോ തുടങ്ങിയവ ആണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നതിനായി നമ്മൾ ഇനിപ്പറയുന്നവ നിർവചിക്കാൻ പോകുന്നു ZX ൽ പോളിനോമിയൽ പറയുക നമുക്ക് പോളിനോമിയൽ എഫ് എക്സ് എന്ന് പറയാം ഞാൻ സാധാരണയായി പോളിനോമിയലുകളെ എഫ് എക്സിനുപകരം എഫ് കൊണ്ട് സൂചിപ്പിക്കാൻ പോകുന്നു തുടക്കത്തിൽ തന്നെ ഞാൻ ഇത് എഴുതാം ഇസഡ് എക്സിലെ ഒരു പോളിനോമിയൽ എഫ് എക്സിനെ പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നു ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് പ്രിമിറ്റീവ് ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ ഡിഗ്രി പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥംനമ്മൾ എല്ലാ കോൺസ്റ്റൻറ്സും ഒഴിവാക്കുന്നു നമ്മൾ കോൺസ്റ്റന്റ്സിനെ പ്രിമിറ്റീവ് എന്ന് വിളിക്കാൻ പോകുന്നില്ല ഇത് കുറഞ്ഞത് ഡിഗ്രി 1 പോളിനോമിയലായിരിക്കണം ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ആദ്യത്തേത് ഡിഗ്രി പോസിറ്റീവ് ആണ് അതിന് ശരിക്കും 3 ഗുണങ്ങളുണ്ട് അത് നമ്മൾ കാണിക്കും gcd ഞാൻ ഇത് വിശദീകരിക്കുംa 1 an 1 ആണ് ഇത് രണ്ടാമത്തെ കണ്ടീഷൻ ആണ് an പോസിറ്റീവ് ആണ് ഇത് മൂന്നാമത്തെ വ്യവസ്ഥയാണ് ai എന്തൊക്കെയാണ് ഇവ f ന്റെ കോഎഫിഷ്യന്റ് മാത്രമാണ് ഞാൻ f നെ a n X n a n മൈനസ് 1 X n മൈനസ് 1 പ്ലസ് a 1 X പ്ലസ് a 0 എന്നിങ്ങനെ എഴുതാൻ പോകുന്നു അതിനാൽ ഒരു പൂർണ്ണസംഖ്യ പോളിനോമിയൽ എടുക്കുന്നതിനാൽ എല്ലാം പൂർണ്ണസംഖ്യകളാണെന്ന് ഓർക്കുക ഇവ പൂർണ്ണസംഖ്യകളാണ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലിനായി എനിക്ക് 3 കാര്യങ്ങൾ വേണം m പോസിറ്റീവ് ആണ് അതായത് ഡിഗ്രി പോസിറ്റീവ് ആണ് എല്ലാ കോഎഫിഷ്യന്റിന്റെയും ജിസിഡി 1 ആണ്ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന്നമ്മൾ 2 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ അത് പ്രിമിറ്റീവ് ആണോ അല്ലയോ ഇത് പ്രിമിറ്റീവ് ആണ് കാരണം ഡിഗ്രി പോസിറ്റീവ് ആണ് ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് 2 3 1 എന്നിങ്ങനെയുള്ള കോഎഫിഷ്യന്റ്സിന്റെ ജിസിഡി 1 ആണ് അതേസമയം മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ അത് പ്രിമിറ്റീവ് അല്ല 3 പ്രോപ്പർട്ടികളിൽ പക്ഷേ മൂന്നാമത്തേത് അല്ല ലീഡിങ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയതിനാൽ ഈ കണ്ടീഷൻ ലംഘിക്കുന്നു n പോസിറ്റീവ് ആയിരിക്കണം ജിസിഡി 1 ആണ് ഡിഗ്രി പോസിറ്റീവ് ആണ് പക്ഷേ ലീഡിങ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ് ഇത് പ്രിമിറ്റീവ് അല്ല അതുപോലെനമുക്ക് 2 എക്സ് സ്ക്വയേർഡ് പ്ലസ് 4 എക്സ് പ്ലസ് 2 ഉണ്ട് ഇവിടെയും ഇത് പ്രിമിറ്റീവ് അല്ല കാരണം ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് ഡിഗ്രി പോസിറ്റീവ് ആണ് പക്ഷേ കോഎഫിഷ്യന്റിന്റെ ജിസിഡി 1 അല്ല ജിസിഡി ഇവിടെ 2 ആണ് അതുപോലെ 4 പ്രിമിറ്റീവ് അല്ല 1 പ്രിമിറ്റീവ് അല്ല 4 പല കാരണങ്ങളാൽ പ്രിമിറ്റീവ് അല്ല ഡിഗ്രി പോസിറ്റീവ് അല്ല കോഎഫിഷ്യന്റിന്റെ ജിസിഡി 1 അല്ല 1ന്റെ ജിസിഡി 1 ആണ് പക്ഷേ ഡിഗ്രി പോസിറ്റീവ് അല്ല പ്രിമിറ്റീവ് പോളിനോമിയൽ എന്നാൽ പോസിറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉള്ള ഒരു പോളിനോമിയൽ ആണ് മാത്രമല്ല എല്ലാ കോഎഫിഷ്യന്റിനും ഒരു കോമൺ ഡിവൈസർ ഇല്ല വളരെ ലളിതമാണ് അതാണ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ അതിനാൽനമ്മൾ ഇനിപ്പറയുന്ന പരാമർശം നടത്തുന്നു fn an ആണെങ്കിൽ f മുമ്പത്തെപ്പോലെ a n X n a n മൈനസ് 1 X n മൈനസ് 1 പ്ലസ് a 1 X പ്ലസ് a 0 ആണെങ്കിൽ n പോസിറ്റീവ് ആണെന്ന് പറയട്ടെ an പോസിറ്റീവ് ആണ് 3 നിബന്ധനകളിൽ 2 ഇവയാണ് ഡിഗ്രി പോസിറ്റീവ് ആണ്ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് ഇപ്പോൾ എഫ് പ്രിമിറ്റീവ് ആകുമ്പോൾ ഇനിപ്പറയുന്നവ കൊണ്ട് നമുക്ക് അത് സവിശേഷമാക്കാം ഏതെങ്കിലും പ്രൈം ഇൻറിജറിനാൽ എഫ് വിഭജിക്കപ്പെടുന്നില്ലെങ്കിൽ മാത്രം f പ്രിമിറ്റീവ് ആണ് നമുക്ക് വേണ്ടത് അത് മാത്രമാണ് അതിനാൽ ഡിഗ്രി പോസിറ്റീവ് ആണെന്നും ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെന്നും നമ്മൾ അനുമാനിക്കുന്നതിനാൽ പ്രിമിറ്റീവ് എന്നതിൽ അവശേഷിക്കുന്ന പ്രോപ്പർട്ടി അതായത് ലീഡിങ് കോഎഫിഷ്യന്റ്സിന്റെ ജിസിഡി 1 ആണ് എന്നതാണ് അതായത് ഒരു പ്രൈം നമ്പറും എല്ലാ ജിസിഡികളെയും അല്ലെങ്കിൽ എല്ലാ കോഎഫിഷ്യന്റിനെയും വിഭജിക്കുന്നില്ല നിങ്ങൾ എല്ലാ കോഎഫിഷ്യന്റിനെയും വിഭജിച്ചാൽ അത് f നെ വിഭജിക്കുന്നുവെന്ന് പറയാം ഒരു പ്രൈം സംഖ്യ f നെ വിഭജിച്ചാൽ അതിനർത്ഥം എല്ലാ കോഎഫിഷ്യന്റ്സിനെയും വിഭജിക്കുന്നു എന്നാണ് കാരണം f എന്നത് p ഇന്റു g എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ p ഓരോ കോഎഫിഷ്യന്റിനെയും വിഭജിക്കുന്നു ഓരോ കോഎഫിഷ്യന്റ് an p ഡിവൈഡ്സ് f എന്നത് പി ഓരോ കോഎഫിഷ്യന്റിനെയും വിഭജിക്കുന്നതിന് തുല്യമാണ് അത് സംഭവിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് പ്രിമിറ്റീവ് ആണ് ഈ രണ്ടാമത്തെ കണ്ടീഷൻ കൂടുതൽ വിശദീകരിക്കാം ഓർക്കുക നമുക്ക് നാച്ചുറൽ ഉണ്ട് അത് ഇവിടെ എഴുതാം ഓർക്കുക മാപ് ഫൈ p ZX മുതൽ Z മോഡ് dp ZX വരെ ഓർക്കുക Z മുതൽ Z മോഡ് p Z വരെ നാച്ചുറൽ സബ്ജെക്റ്റീവ് ഹോമോമോർഫിസം ഉണ്ട് പൊതുവേ ഏത് R റിങ്ങിനും ഏത് ഐഡിയലിനും R മുതൽ R മോഡ് I വരെ എനിക്ക് നാച്ചുറൽ സബ്ജെക്റ്റീവ് ഹോമോമോർഫിസം ഉണ്ട് ഇവിടെ നമുക്ക് ZX റ്റു Z Z റ്റു Z മോഡ് p Z ഉണ്ട് ആദ്യം നമുക്ക് ഒരു വേരിയബിൾ അറ്റാച്ചുചെയ്യാം ZX റ്റു Z മോഡ് p Z X ഇവിടെനമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഒരു പോളിനോമിയൽ എടുക്കുന്നുനമ്മൾ മോഡ് പി കാണുന്നു ശരിയാണ് ഉദാഹരണത്തിന് p 3 ആണെങ്കിൽ ഫംഗ്ഷൻ 3 X സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2 എക്സ് മൈനസ് 7 അല്ലെങ്കിൽ പ്ലസ് 7 3 എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് പ്ലസ് 7 ബാറിലേക്ക് പോകുന്നു അത് 3 ആണ്ഇത് 3 ബാർ എക്സ് സ്ക്വയേർഡ് പ്ലസ് 2 ബാർ എക്സ് പ്ലസ് 7 ബാർ പോലെയാണ് ഇത് യഥാർത്ഥത്തിൽ 2 ബാർ എക്സ് പ്ലസ് 1 ബാർ മാത്രമാണ് ഇത് ഒരു ഡിഗ്രേഷൻ മാത്രമാണ് ശരിയാണ് നമ്മൾ ഓരോ കോഎഫിഷ്യന്റിന്റെയും മോഡുലുസ് പി എടുക്കുന്നു അതിനാൽ 3 എക്സ് സ്ക്വയേർഡ് പ്ലസ് 2 എക്സ് പ്ലസ് 7 അണ്ടർ ഫൈ 3 മാപ്സ് റ്റു 2 ലീഡിങ് കോഎഫിഷ്യന്റ് പോകുന്നു കാരണം 3 ലീഡിങ് കോഎഫിഷ്യന്റ് ആണ് ബാക്കി നില്കുന്നത് 2 എക്സ് 2 ബാർ എക്സ് പ്ലസ് 1 ബാർ ആണ് കാരണം ഇസഡ് മോഡ് 3 ഇസെഡിൽ 7 എന്നത് 1 ആണ് എഫ് നെ ഏതെങ്കിലും പ്രൈം ഇൻറിജർ പി കൊണ്ട് ഹരിക്കില്ലെങ്കിൽ അതിനർത്ഥം ഏതെങ്കിലും പ്രൈം ഇൻറിജർ പിക്ക് ഫൈ പിഎഫ് 0 അല്ല കാരണം f ന്റെ ഓരോ കോഎഫിഷ്യന്റും p കൊണ്ട് ഹരിക്കാമെങ്കിൽ അതായത് fപി കൊണ്ട് ഹരിക്കാവുന്നതാണ് അങ്ങിനെയെങ്കിൽ f fp എന്നിവയുടെ ചിത്രം 0 ആയിരിക്കും കാരണം നമ്മൾ ഓരോ കോഎഫിഷ്യന്റിന്റെയും മോഡുലുസ് പി എടുക്കുന്നു ഓരോ കോഎഫിഷ്യന്റും p കൊണ്ട് ഹരിക്കാമെങ്കിൽ പോളിനോമിയൽ തന്നെ 0 ആയി മാറുന്നു അതായത് phi pf 0 ആകും phi pf 0 അല്ലെങ്കിൽ അതിനർത്ഥം f ന്റെ ഒരു കോഎഫിഷ്യന്റ് എങ്കിലും p കൊണ്ട് ഹരിക്കാനാവില്ല അതായത് f നെ തന്നെ പി കൊണ്ട് ഹരിക്കാനാവില്ല അതിനാൽ എഫ് പ്രിമിറ്റീവ് ആണെന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് ഓർമ്മിക്കുന്നതിനുള്ള സൌകര്യപ്രദമായ മാർഗ്ഗമാണിത് ഇത് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെമ്മയിലേക്ക് നയിക്കുന്നു ഇതിലെല്ലാം ZX യുഎഫ്ഡിയാണെന്ന് തെളിയിക്കുന്നു ഇതിനെ ഗോസ്സ് ലെമ്മ എന്ന് വിളിക്കുന്നു ഇത് വളരെ ലളിതമാണ് പക്ഷേ ഇത് വളരെ പ്രധാനമാണ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ നിർവചനം അനുസരിച്ച് ഒരു ഇന്റീജർ പോളിനോമിയലാണെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഓർക്കുക 3 അധിക നിബന്ധനകളുള്ള ഒരു ഇന്റീജർ പോളിനോമിയലാണ് പ്രിമിറ്റീവ് പ്രിമിറ്റീവ് പോളിനോമിയലുകൾ യാന്ത്രികമായി പൂർണ്ണസംഖ്യയുള്ള പോളിനോമിയലുകളാണ് ഗോസ്സ് ലെമ്മ പറയുന്നു എഫ് ജി എന്നിവ പൂർണ്ണസംഖ്യയുടെ പോളിനോമിയൽ റിംഗിലെ രണ്ട് പോളിനോമിയലുകളായിരിക്കട്ടെ അതായത് എഫ് ജി എന്നിവ പൂർണ്ണസംഖ്യ പോളിനോമിയലുകളാണ് എഫ് കോമ ജി രണ്ടും പ്രിമിറ്റീവ് ആണെങ്കിൽ എഫ് ജി യുടെ പ്രോഡക്ട് പ്രിമിറ്റീവ് ആണ് ഇത് വളരെ ലളിതവും വസ്തുത പരിശോധിക്കാൻ എളുപ്പവുമാണ് പക്ഷേ ഇതിന് ഗോസ്സ് ലെമ്മ എന്ന പേര് ഉണ്ട് കാരണം ഇത് വളരെ ഉപയോഗപ്രദമാണ് ഇത് എല്ലായ്പ്പോഴും പ്രയോഗിക്കുന്നു ഇത് വളരെ ആശ്ചര്യകരമായ വസ്തുതയല്ല പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് രണ്ട് പോളിനോമിയലുകൾ ഉണ്ടെങ്കിൽ അവ രണ്ടും ഇന്റീജർ പോളിനോമിയലുകളാണെങ്കിൽ അവ രണ്ടും പ്രിമിറ്റീവ് ആണ്അങ്ങിനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റും പ്രിമിറ്റീവ് ആണ്ശരി ചില നിബന്ധനകൾ ഉണ്ട് കാരണം f g എന്നിവയ്ക്ക് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ fg ക്കു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് എഫ് ജി എന്നിവയ്ക്ക് പോസിറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്ടിനും പോസിറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ട് അതിനാൽ ഗോസ്സ് ലെമ്മയുടെ തെളിവ് പറയുന്നത് fg യുടെ ഡിഗ്രി f ന്റെ ഡിഗ്രി പ്ലസ് ജി യുടെ ഡിഗ്രിയാണെന്നാണ് കാരണം എക്സ് സ്ക്വയേർഡ് എഫ് ന്റെ ഒരു ലീഡിങ് ടെം ആണെങ്കിൽ എക്സ് പവർ 4 g യുടെ ഒരു ലീഡിങ് ടെം ആണ് നിങ്ങൾ അവയെ ഗുണിക്കുമ്പോൾ എക്സ് പവർ 6 എഫ് ജി യുടെ ലീഡിങ് ടെം ആകും ഡിഗ്രി 2 പ്ലസ് 4 ഉം ആകും എഫ് ജി എന്നിവ പ്രിമിറ്റീവ് ആണ് അതിനർത്ഥം എഫ് ന്റെ ഡിഗ്രി പോസിറ്റീവ് ആണ് ജി യുടെ ഡിഗ്രി പോസിറ്റീവ് ആണ് തുക പോസിറ്റീവ് ആണ്എഫ് ജിയുടെ ഡിഗ്രി പോസിറ്റീവ് ആണ് അപ്പോൾ fg യുടെ ഒരു ലീഡിങ് കോഎഫിഷ്യന്റ് എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 2 എക്സ് സ്ക്വയേർഡ് മൈനസ് 3 എക്സ് പ്ലസ് 6 അല്ലെങ്കിൽ പ്ലസ് 3 ഇന്റു 5 എക്സ് പവർ 4 5 എക്സ് പവർ 6 മൈനസ് 7 എക്സ് പ്ലസ് എന്തും ഗുണിക്കുക ഏറ്റവും വലിയ ഡിഗ്രി പദത്തിന്റെ കോഎഫിഷ്യന്റ് ആണ് ലീഡിങ് കോഎഫിഷ്യന്റ് ഇവിടെ ഇത് 2 ആണ് ഇവിടെ ഇത് 5 ആണ് അതിനാൽ നിങ്ങൾ അവയെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 10 എക്സ് പവർ 8 ലഭിക്കും അടുത്തതായി എന്ത് സംഭവിക്കുമെന്നതിൽ നമുക്ക് താൽപ്പര്യമില്ല അതിനാൽ fg യുടെ ലീഡിങ് കോഎഫിഷ്യന്റ് ആണ് ലീഡിങ് കോഫിഫിഷ്യന്റ് അതിനാൽ ഞാൻ ഇത് എഴുതാൻ പോകുന്നത് lc ഓഫ് f ഇന്റു lc ഓഫ് ജി lc എന്നത് ലീഡിങ് കോഫിഫിഷ്യന്റിനെ സൂചിപ്പിക്കുന്നു lc ഓഫ് fg എന്നാൽ lc ഓഫ് fc ടൈംസ് lc ഓഫ് g ആണ് കാരണം fg യുടെ ലീഡിങ് കോഫിഫിഷ്യന്റ് എന്നത് f ന്റെ ലീഡിങ് ടെം ഇന്റു ജി യുടെ ലീഡിങ് ടെം ആണ് ലീഡിങ് കോഫിഫിഷ്യന്റിനു ഈ പ്രോപ്പർട്ടി ഉണ്ട് എഫ് ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം അതുപോലെ ജി യുടെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് അതിനാൽ fg യുടെ കോഎഫിഷ്യന്റ്സിന്റെ gcd 1നു തുല്യമാണെന്ന് ഇനി തെളിയിക്കണം ഇത് പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെ മൂന്നാമത്തെ വ്യവസ്ഥയാണ് എന്നാൽ ഒരിക്കൽ നമ്മൾ നിരീക്ഷിച്ചതുപോലെ ഡിഗ്രി പോസിറ്റീവ് ആണെങ്കിൽ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ പ്രിമിറ്റീവ് ഫൈ pf എന്നത് നോൺസീറൊ ആണ്ഏതു പ്രൈം ഇന്റീജർ പി ക്കും എല്ലാ പ്രൈം സംഖ്യകൾക്കും ഫൈ p ഓഫ് fg 0 ന് തുല്യമല്ലെങ്കിൽ മാത്രമേ fg പ്രിമിറ്റീവ് ആകൂ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പ്രൈം ഇൻറിജർ എന്ന പദം ഉപയോഗിക്കുന്നു കാരണം ഇപ്പോൾ നമുക്ക് ഒരു ആർബിട്രറി റിങ്ങിലെ പ്രൈം ഘടകങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് Z ലെ പ്രൈമുകളെ പ്രൈം ഇൻറിജറുകളായി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫൈ pfg പൂജ്യം അല്ല എന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കുകയാണെങ്കിൽ p fg യുടെ എല്ലാ കോഎഫിഷ്യന്റ്സിനെയും വിഭജിക്കുന്നില്ല അതായത് fg യുടെ എല്ലാ കോഎഫിഷ്യന്റ്സിന്റെയും gcd 1 ആണ് നമുക്ക് ഇത് ശരിയാണ് ഇത് ഓരോ പ്രൈം ഇന്റീജെറിനും ശരിയായിരിക്കണമെന്നു നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം റിങ്ങുകളുടെ ഒരു ഹോമോമോർഫിസം ആണ് ഫൈ p ഓഫ് fg എന്നത് ഫൈi p ഓഫ് f ഇന്റു ഫൈi p ഓഫ് g ആണ് ഈ പ്രോഡക്ട് നോൺസീറോ ആയിരിക്കണമെന്നു നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ പ്രോഡക്ട് നോൺസീറോ ആണെങ്കിൽ ഇപ്പോൾ Z Z മോഡ് p ZX ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന വസ്തുത നമ്മൾ ഉപയോഗിക്കുന്നു Z മോഡ് p Z വാസ്തവത്തിൽ ഒരു ഫീൽഡാണ് അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിലേക്ക് നിങ്ങൾ ഒരു വേരിയബിൾ അറ്റാച്ചുചെയ്യുമ്പോൾ അത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായി തുടരും ഇത് ഒരു ലളിതമായ വസ്തുതയാണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിൽ നിങ്ങൾ രണ്ട് നോൺസീറോ പോളിനോമിയലുകളെകൊണ്ട് ഗുണിച്ചാൽ ആ പ്രോഡക്ടും നോൺസീറോ ആണ് അതിനാൽ ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിൽ ഒരു പ്രോഡക്ട് നോൺസീറൊ ആയിരിക്കുമ്പോൾ അതായത്ഫൈ p fഫൈ pg എന്നിവ എല്ലാ pക്കും നോൺസീറൊ ആണ് ആർബിട്രറി റിങ്ങിൽ നോൺസീറൊ എലെമെന്റ്സ് 0 ആയി ഗുണിക്കാമെന്നത് ഓർക്കുക ഇത് ഈ പ്രസ്താവനയ്ക്ക് തുല്യമല്ല പ്രോഡക്ട് നോൺസീറൊ എന്നത് വ്യക്തിഗത വസ്തുതകൾ 0 എന്നതിന് തുല്യമല്ല മറിച്ച് ഇന്റഗ്രൽ ഡൊമെയ്നിൽ പ്രൊഡക്റ്റ് നോൺസീറൊ ആകുന്നത് ഓരോ പദവും നോൺസീറൊ ആണെങ്കിൽ മാത്രം ആണ് എന്നാൽ ഇപ്പോൾ എല്ലാ p ക്കും ഫൈ p ഓഫ് f നോട്ട് ഈക്വൽ 0 യുടെ അർത്ഥമെന്താണ് അതിനർത്ഥം f g എന്നത് പ്രിമിറ്റീവും ആണ് എല്ലാ p യ്ക്കും ഫൈ p 0 അല്ല എങ്കിൽ കാരണം g പോസിറ്റീവ് ഡിഗ്രി പോളിനോമിയലാണ് ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് ഫൈ p നോൺസീറൊ ആണെങ്കിൽ മാത്രമേ g പ്രിമിറ്റീവ് ആവുകയുള്ളൂ പക്ഷേ ഇത് ഹൈപോതെസിസ് ആണ് F g എന്നിവ പ്രിമിറ്റീവ് ആണെന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെ പ്രോഡക്ട് പ്രിമിറ്റീവ് ആണെന്ന് ഇത് തെളിയിക്കുന്നു ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് രണ്ട് പ്രിമിറ്റീവ് പോളിനോമിയലുകൾ ഉണ്ടെങ്കിൽ അവയുടെ പ്രോഡക്റ്റും പ്രിമിറ്റീവ് ആണ് ഞാൻ തുടരാം അടുത്ത പ്രധാന പ്രിപൊസിഷൻ തെളിയിക്കട്ടെ പ്രിപൊസിഷൻ ഇനിപ്പറയുന്നവയാണ് ഞാൻ ഇത് എഴുതി കുറച്ച് ഉദാഹരണങ്ങൾ നൽകും f ഇപ്പോൾ റാഷണൽ പോളിനോമിയലാകട്ടെ എഫ് എക്സ് ക്യുഎക്സിലാണ് എഫ് ന്റെ ഡിഗ്രി പോസിറ്റീവ് ആണെന്ന് കരുതുക അപ്പോൾ f എന്നത് യൂണീക് ആയി എഴുതാം ഈ യൂണീക് എന്നത് നമുക്ക് വളരെ പ്രധാനമാണ് f ഈക്വൽ റ്റു cf നോട്ട് എന്ന ഒരു പ്രോഡക്ട് യൂണീക് ആയി എഴുതാം ഇവിടെ c യഥാർത്ഥത്തിൽ ഒരു റാഷണൽ സംഖ്യയും f 0 ഒരു ഇന്റീജർ പോളിനോമിയൽ പ്രിമിറ്റീവുമാണ് എഫ് എന്നത് റാഷണൽ സംഖ്യയുടെയും പ്രിമിറ്റീവ് പോളിനോമിയലിന്റെയും പ്രോഡക്ട് ആയി യൂണീക് ആയി എഴുതാം കൂടാതെ സി ഇസഡിന്റേതാണ് സി പൊതുവായ റാഷണൽ സംഖ്യയാണ് എന്നാൽ സി ഇസഡിന്റേതാകണമെങ്കിൽ എഫ് എക്സ് ഇസഡ്എക്സിന്റേതാകണം സി ഇസഡിന്റേതാകണമെങ്കിൽ എഫ് എക്സ് ഇസഡ്എക്സിന്റേതാകണം ഓർക്കുകനമ്മൾ ആരംഭിച്ചത് ഒരു റാഷണൽ പോളിനോമിയലിലാണ് റാഷണൽ പോളിനോമിയൽ വാസ്തവത്തിൽ ഒരു ഇന്റീജർ പോളിനോമിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന സി ഒരു ഇന്റീജർ ആകു നിർവചനം ഇത് ആണ് സി യൂണീക്ക് ഫാക്ടറൈസേഷനാണെന്ന് ഓർമ്മിക്കുക സി എന്നത് റാഷണൽ പോളിനോമിയലുമായി യൂണീക്ക് ആയി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് c നെ f ന്റെ കണ്ടെന്റ് എന്ന് വിളിക്കുന്നു ഇതിനെ f ന്റെ കണ്ടെന്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് തെളിയിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു ഉദാഹരണം തരാം നമുക്ക് എഫ് എക്സ് ഈക്വൽ റ്റു 1 ബൈ 12 എക്സ് പവർ 4 മൈനസ് 1 ബൈ 6 എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ 3 എക്സ് സ്ക്വയേർഡ് മൈനസ് 2 എക്സ് പ്ലസ് 1 ബൈ 2 എന്ന് എടുക്കാം ഓർക്കുക ഇത് ഒരു റാഷണൽ പോളിനോമിയലാണ് ഇത് ഒരു പൂർണ്ണസംഖ്യയുടെ പോളിനോമിയലല്ല കോഎഫിഷ്യന്റ് റാഷണൽ സംഖ്യകളാണ് അവ പൂർണ്ണസംഖ്യകളല്ല നിങ്ങൾ എങ്ങനെയാണ് എഫ് നെ സി ഇന്റു ഒരു റാഷണൽ സംഖ്യ ഇന്റു ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് എഴുതുന്നത് ഇത് വളരെ ലളിതമാണ് ആദ്യം നമുക്ക് യഥാർത്ഥത്തിൽ ഡിനോമിനേറ്റർ മായ്ക്കാനാകും അതിനാൽനമ്മൾ 12 എഫ് നെ എക്സ് പവർ 4 മൈനസ് 2 എക്സ് ക്യൂബ് പ്ലസ് 4 എക്സ് സ്ക്വയേർഡ് മൈനസ് 24 എക്സ് പ്ലസ് 6 ആയി പരിഗണിക്കും ഒരു ഇന്റീജർ പോളിനോമിയൽ ലഭിക്കുന്നതിന് ഡിനോമിനേറ്റർ കളയുക ഇപ്പോൾ ആ ഇന്റീജർ പോളിനോമിയൽ പ്രിമിറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കുക ഇത് പ്രിമിറ്റീവ് ആണോ ആണ് കാരണം ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ് ലീഡിംഗ് കോഫിഫിഷ്യന്റിന്റെ ഡിഗ്രി 1ആണ് അത് പോസിറ്റീവ് ആണ് കൂടാതെ കോഎഫിഷ്യന്റ് ജിസിഡി 1 ഉണ്ട് കാരണം കോഎഫിഷ്യന്റുകളിലൊന്ന് 1 ആണ് ഇതാണ് എഫ് നമ്മുടെ എഫ് 0 ഇപ്പോൾ എഫ് 1 ബൈ 12 ഇന്റു f 0 എന്ന് എഴുതുക ഇത് സി ആണ് എഫ് എക്സിന്റെ കണ്ടെന്റ് 1 ബൈ 12 ആണ് ഈ ഉദാഹരണത്തിൽ കണ്ടെന്റ് 1 ബൈ 12 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പ്രക്രിയ തന്നെ ഇവിടെ ആവർത്തിക്കാം പുതുതായി ഒന്നും തന്നെയില്ല അതിനാൽനമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഓർക്കുക ഏതെങ്കിലും റാഷണൽ പോളിനോമിയൽ നൽകിയാൽ അത് ഒരു റാഷണൽ സംഖ്യയുടെയും ഒരു പ്രിമിറ്റീവ് പോളിനോമിയലിന്റെയും പ്രോഡക്ട് ആയി എഴുതാമെന്നു നമ്മൾ കാണിക്കേണ്ടതുണ്ട് മാത്രമല്ല അത് യൂണീക്ക് ആണെന്ന് കാണിക്കുകയും വേണം അതിനാൽ നമുക്ക് പ്രിപൊസിഷൻ തെളിയിക്കാം രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യം നമ്മൾ എക്സിസ്റ്റൻസ് തെളിയിക്കും അത് എളുപ്പമുള്ള ഭാഗമാണ് ഫാക്ടറൈസേഷന്റെ നിലനിൽപ്പ് എന്താണ് നമ്മൾ എന്തുചെയ്യും ആദ്യംഡിനോമിനേറ്റർ കളയുക എഫ് നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഉദാഹരണം വീണ്ടും ഓർമ്മിക്കുക ഞാൻ ഇവിടെ ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ട് ഡിനോമിനേറ്റർ മാറ്റുക എന്നാൽ എല്ലാ ഡിനോമിനേറ്ററുകളുടെയും എൽസിഎമ്മിന്റെ ജിസിഡി കൊണ്ട് ഗുണിക്കുക ചില d കൊണ്ട് ഗുണിച്ചാൽ df ഈക്വൽ റ്റു f 1 ഇൻ ZXഎന്ന് കിട്ടും അതാണ് ഞാൻ ഇവിടെ ചെയ്തത് ഒരു ഇന്റീജർ പോളിനോമിയൽ ലഭിക്കുന്നതിന് 12 കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ പൊതുവായി ഞാൻ d കൊണ്ട് ഗുണിച്ചാൽ എന്തായാലും ഡിനോമിനേറ്റർ പോകുംഅതായത് df ഈക്വൽ റ്റു f 1ഇൻ Z X ഇപ്പോൾ f 1 ന്റെ കോഎഫിഷ്യന്റിന്റെ gcdയെ ഫാക്ടർ ചെയ്യുക നിങ്ങൾ എല്ലാ കോഎഫിഷ്യന്റും നോക്കിയാൽ ഒരു f 1 ഒരു ഇന്റീജർ പോളിനോമിയൽ ആണ് ആ ഉദാഹരണത്തിൽ ജിസിഡി 1 ആയിരുന്നു അതിനാൽ നമുക്ക് ഘടകങ്ങൾ ആവശ്യമില്ല പക്ഷേ മറ്റെന്തെങ്കിലും പൊതുവായ ഘടകങ്ങളുണ്ടാകാം നമുക്ക് ഇത് e ഇന്റു f 0 എന്ന് എഴുതാം gcd ഈക്വൽ റ്റു e ഇന്റു f 0 എന്ന് പറയാം എനിക്ക് ഒരു ഇന്റീജർ പോളിനോമിയൽ ഉണ്ട് എല്ലാ കോഎഫിഷ്യന്റ്കൾക്കും gcd ഉണ്ട് അതിനാൽ ഞാൻ അത് പുറത്തെടുക്കുന്നു അപ്പോൾ എഫ് 0 പ്രിമിറ്റീവ് ആണെന്ന് ഇത് വ്യക്തമാക്കുന്നു കാരണം എഫ് 0 എഫ് 1 എന്നിവയുടെ ഡിഗ്രി തുല്യമാണ്അത് പോസിറ്റീവ് ആണ് നമ്മൾ അനുമാനിക്കുന്ന പോളിനോമിയൽ എഫ് പോസിറ്റീവ് ഡിഗ്രിയാണ് പൂർണ്ണസംഖ്യകളാൽ ഗുണിച്ചാൽ പോളിനോമിയലിന്റെ ഡിഗ്രി മാറില്ല എഫ് 1 ന്റെ ഡിഗ്രി പോസിറ്റീവ് ആണ് എഫ് 0 യുടെ ഡിഗ്രി പോസിറ്റീവ് ആണ് കൂടാതെ f 0 യുടെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് കാരണം f 1 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് എഫ് ന്റെ ഡിഗ്രി പോസിറ്റീവ് ആണെന്നും എഫ് നു നെഗറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടാകാമെന്നും നമ്മൾ അനുമാനിക്കാൻ പോകുന്നു എന്നാൽ നിങ്ങൾ ജിസിഡി കളയുമ്പോൾ ജിസിഡി എല്ലായ്പ്പോഴും നെഗറ്റീവ് ഭാഗം പുറത്തെടുക്കുകയും എഫ് 0 യുടെ ലീഡിംഗ് കോഎഫിഷ്യന്റ് ഇപ്പോൾ പോസിറ്റീവ് ആകുകയും ചെയ്യുന്നു ഇതിന് പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് പോസിറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ട് നമ്മൾ ജിസിഡി ഫാക്റ്ററൈസ് ചെയ്തതിനാൽ ശേഷിക്കുന്ന കോഎഫിഷ്യന്റുകൾക്ക് പൊതുവായ ഘടകങ്ങളൊന്നുമില്ല അതുകൊണ്ടു f 0 പ്രിമിറ്റീവ് ആണെന്ന് നമുക്ക് കാണിക്കാം അതിനാൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് ഒന്ന് ശരിയാക്കുക1 സി ഓഫ് എഫ് 1 പോസിറ്റീവ് ആണെന്ന് അനുമാനിക്കുന്ന തരത്തിൽ ഞാൻ ഡിനോമിനേറ്റർ ക്ലിയർ ചെയ്യുന്നു 1 സി ഓഫ് എഫ് 1 പോസിറ്റീവ് ആണെന്ന് എനിക്ക് ഊഹിക്കാം കാരണം എഫിന് നെഗറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ എഫ് 1 ന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് അത് ഡി യിൽ ക്രമീകരിക്കാൻ കഴിയും എഫ് 1 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് ഒരിക്കൽ പോസിറ്റീവ് അയാൽ എഫ് 0 യുടെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് f 0 പ്രിമിറ്റീവ് ആണ്കാരണം നമ്മൾ പൊതുവായ ഘടകങ്ങളെല്ലാം ഫാക്റ്ററൈസ് ചെയ്തു ഇ യിൽ എഴുതി അതിനാൽ ഇപ്പോൾ നമുക്ക് f ഈക്വൽ റ്റു e ബൈ d f 0 എന്ന് എഴുതാം ഇത് സി ആകാൻ പോകുന്നു ഇത് കണ്ടെന്റ് ആണ് ഇതാണ് പ്രിമിറ്റീവ് നമ്മൾ f ഒരു റാഷണൽ സംഖ്യയായി എഴുതിയിട്ടുണ്ട് ഓർക്കുക ഇപ്പോൾ c എന്നത് e ബൈ dആണ് അത് Q ലാണ് ഈ ഉദാഹരണം കാണിക്കുന്നതുപോലെ കണ്ടെന്റ് പൊതുവേ ഒരു പൂർണ്ണസംഖ്യയല്ല എഫ് ഒരു ഇന്റീജർ പോളിനോമിയൽ ആണെങ്കിൽ മാത്രമേ ഇത് ഒരു പൂർണ്ണസംഖ്യയാകു ഇവിടെനമ്മൾ ഒരു നോൺ ഇൻറിജർ പോളിനോമിയൽ ഉപയോഗിച്ച് ആരംഭിച്ചു അതിനാൽ കണ്ടെന്റ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണസംഖ്യയല്ല ഇത് ഒരു റാഷണൽ സംഖ്യയാണ് നമ്മൾ ഇത് ചില റാഷണൽ സംഖ്യകളായി എഴുതിയിട്ടുണ്ട് നമുക്ക് പ്രിമിറ്റീവ് പോളിനോമിയൽ ഉണ്ട് ഇതാണ് എക്സിസ്റ്റൻസ് നാം ഇപ്പോൾ യുണീക്നെസ്സ് കാണിക്കണം അത് എളുപ്പമാണ് f എന്നത് ഒരു റാഷണൽ പോളിനോമിയലാണെന്നും നമുക്ക് f ഈക്വൽ റ്റു c ഇന്റു f 0 എന്നും അതേ പോലെ d ഇന്റു g 0 എന്നും എഴുതാമെന്ന് കരുതുക സിഡി എഫ് 0 ജി 0 എന്നിവയുടെ പ്രോപ്പർട്ടി എന്താണ് c d എന്നിവ Q യിൽ ഉണ്ട് അവ റാഷണൽ സംഖ്യകളാണ് f 0 g 0 പ്രിമിറ്റീവ് ആണ് നിർവചനം അനുസരിച്ച് പ്രിമിറ്റീവ് എന്നാൽ ഇന്റീജർ പോളിനോമിയലുകൾ എന്നാണ് അതിനാൽനമുക്ക് സാധ്യമായ രണ്ട് വിവരണങ്ങളുണ്ട് അവ ഒരേ വിവരണമാണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സി ഈക്വൽ റ്റു df 0 ഈക്വൽ റ്റു g 0 എന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് അത് കാണിക്കാം ഡിനോമിനേറ്ററുകൾ കളയുന്നതിലൂടെ സിഡി z ൽ ഉണ്ടെന്നു നമുക്ക് അനുമാനിക്കാം ഞാൻ ശരിക്കും ചെയ്യുന്നത് ഈ സമവാക്യം c f 0 ഈക്വൽ റ്റു d g 0ആണ്അതിനെ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ പൊതുവായ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുന്നു എനിക്ക് എഴുതാൻ കഴിയും ഞാൻ അടിസ്ഥാനപരമായി സി ഓഫ് സി പ്രൈം എഫ് 0 ഈക്വൽ റ്റു ഡി പ്രൈം എഫ് 0 എന്ന് എഴുതുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ബൈ 12 എഫ് 0 ഇന്റു 1 ബൈ 7 g 0 ഉണ്ട് ഞാൻ ചെയ്യുന്നത് 84 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 7 എഫ് 0 ഈക്വൽ റ്റു 12 g 0 എന്ന് കിട്ടും ഇപ്പോൾ ഞാൻ എഫ് ശരിക്കും മറന്നാൽ എനിക്ക് ഒരു സമവാക്യം ഉണ്ട് ചില കോമൺ ഫാക്ടർ കൊണ്ട് ഗുണിക്കുക ഇപ്പോൾ സി പ്രൈം ഡി പ്രൈം ഇസഡിലാണ് എനിക്ക് വീണ്ടും പേരുമാറ്റി സി ഡി എന്ന് വിളിക്കാം സി ഡി എന്നിവ ഇസഡിലാണെന്നു സാമാന്യത നഷ്ടപ്പെടാതെ ഞാൻ അനുമാനിക്കും നമുക്ക് cf 0 dg 0 f 0 g 0 എന്നിവ പ്രിമിറ്റീവ് ആണ് അതിനർത്ഥം അവ പൂർണ്ണസംഖ്യാ പോളിനോമിയലുകളാണ് സിഡി പൂർണ്ണസംഖ്യകളാണ് യഥാർത്ഥത്തിൽ അവ റാഷണൽ സംഖ്യകളാണ് എന്നാൽ ഇപ്പോൾ അവയെ പൂർണ്ണസംഖ്യകളാക്കാൻ ഞാൻ ഡിനോമിനേറ്ററുകൾ മായ്ച്ചു f 0 ന്റെ കോഎഫിഷ്യന്റ് എ i ആണെന്ന് നമുക്ക് പറയാം ഓർക്കുക f 0 g 0 എന്നിവയ്ക്ക് ഒരേ ഡിഗ്രിയാണുള്ളത് കാരണം കോൺസ്റ്റന്റ് ഇന്റു f 0 ഈക്വൽ റ്റു കോൺസ്റ്റന്റ് ഇന്റു g 0 ആണ് അവയ്ക്ക് ഒരേ ഡിഗ്രി ആണ് കോഎഫിഷ്യന്റ് an an മൈനസ് 1എ 0 സമാനമായി g 0 ന്റെ കോഎഫിഷ്യന്റ് b i എന്ന് പറയാം f 0 എന്നത് പ്രിമിറ്റീവ് ആണ് അതുകൊണ്ട് ai യുടെ gcd 1 ആണ് അതുപോലെ g 0 എന്നത് പ്രിമിറ്റീവ് ആണ്ഇത് സൂചിപ്പിക്കുന്നത് bi യുടെ gcd 1 ആണ് f 0 പ്രിമിറ്റീവ് പോളിനോമിയലാണ് ഈ ഉദാഹരണത്തിൽ എക്സ് പവർ 4 മൈനസ് 2 എക്സ് ക്യൂബും മറ്റും പ്രിമിറ്റീവ് പോളിനോമിയൽ ആണ് a 4 3ആണ് a 3 2 ആണ് a 2 4 ആണ് a 1 മൈനസ് 24 ആണ് a 0 6 ആണ് ഈ കോഎഫിഷ്യന്റ്സിന്റെ എല്ലാം gcd 1 ആണ് എന്നാൽ cf 0യുടെ കോഎഫിഷ്യന്റ് എന്തൊക്കെയാണ് ഇത് c a i മാത്രമാണ് ശരിയാണ് നമ്മൾ ഓരോ കോഎഫിഷ്യന്റിനെയും c കൊണ്ട് ഗുണിക്കുന്നു f 0 നെ c കൊണ്ട് ഗുണിച്ചാൽ എല്ലാ കോഎഫിഷ്യന്റും c കൊണ്ട് ഗുണിക്കുന്നു എന്നാണ് അതുകൊണ്ട് cf 0 യുടെ കോഎഫിഷ്യന്റ് ca i ആണ് പകരം cg 0 d g 0 ന്റെ കോഎഫിഷ്യന്റ് എന്തൊക്കെയാണ് dg 0 എന്നത് dabi dbi ആണ് കാരണം bi എന്നത് g 0 യുടെ കോഎഫിഷ്യന്റ് ആണ് അതുകൊണ്ടു db i അതിനാൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം c a i യുടെ ജിസിഡി എന്താണ് ai യുടെ gcd 1 ആണ് അതിനാൽ cai യുടെ gcd c ആണ് dbi യുടെ gcd d ആണ് നിങ്ങൾക്ക് പരസ്പരം കോ പ്രൈം ആയ ഒരു കൂട്ടം സംഖ്യകളുണ്ട് അതായത് ജിസിഡി 1 ആണ് നിങ്ങൾ അവയെല്ലാം ഒരേ സംഖ്യയാൽ ഗുണിച്ചാൽ ജിസിഡി സി ആകും 4 7 9 ന്റെ ജിസിഡിഎന്നത് 1 ആണെന്ന് നമുക്ക് പറയാം കാരണം അവയ്ക്ക് പൊതുവായ ഘടകങ്ങളൊന്നുമില്ല എന്നാൽ നിങ്ങൾ അവയെല്ലാം 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 20 35 45 ഉണ്ട് അതിനാൽ ജിസിഡി 5 ആകും കാരണം 5 തീർച്ചയായും അവയെല്ലാം വിഭജിക്കുന്നു മറ്റൊരു സംഖ്യയ്ക്കും അവയെ വിഭജിക്കാൻ കഴിയില്ല മറ്റൊരു പ്രൈം ഇല്ല അതിനാൽ gcd 5 ആണ് ai ക്കു gcd 1 ഉണ്ട് ci ക്കു gcd ഉണ്ട് അതുപോലെ gdb യുടെ gcd d ഉണ്ട് എന്നാൽ ഇപ്പോൾ cf 0 ഈക്വൽ റ്റു dg 0 എന്ന പ്രധാന വസ്തുത നമ്മൾ ഉപയോഗിക്കുന്നു അതായത് സെറ്റ് cai ഈക്വൽ റ്റു സെറ്റ് dbi cf 0 എന്നത് ഒരേ പോളിനോമിയൽ dg 0 ആണ് അതായത് കോഎഫിഷ്യന്റ് സെറ്റുകൾ തുല്യമാണ് cai ഈക്വൽ റ്റു db i എന്നാൽ ഒരു കോഎഫിഷ്യന്റ് സെറ്റുകൾ സമാനമായിക്കഴിഞ്ഞാൽ അവയുടെ ജിസിഡികൾ സമാനമാണ്പോസിറ്റീവ് നെഗറ്റീവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സി ഈക്വൽ റ്റു പ്ലസ് മൈനസ് ഡി കാരണം ജിസിഡി 2 ആണെങ്കിൽ മൈനസ് 2 ജിസിഡി ആയിരിക്കും ഏതൊരു അസോസിയേറ്റ് ഇന്റു gcd യും ഒരു gcd കൂടിയാണ് gcd ഗ്രെറ്റസ്റ് കോമൺ ഡിവൈസർ ആണ് നമ്മൾ ഇപ്പോൾ ഇത് പൊതുവായി ചെയ്യാൻ ശ്രമിക്കുകയാണ് സംഖ്യകളിൽ സാധാരണഗതിയിൽ കൺവെൻഷൻ ജിസിഡി നിർവചിക്കുന്നത് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നതാണ് എന്നാൽ പൊതുവേ നിങ്ങൾക്ക് ആർബിട്രറി റിങ്ങിൽ ജിസിഡി എന്നത് ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആണ് ഒരു അസോസിയേറ്റ് കൊണ്ട് ഗുണിച്ച അത്തരം ഏതൊരു കാര്യവും ജിസിഡി ആകും ഈ വീഡിയോയുടെ തുടക്കത്തിലെ പരാമർശം ഓർക്കുക ഞാൻ ZX ഒരു UFD ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഏത് UFD R നും സമാനമായ തെളിവ് ചെയ്യാം RX ഒരു UFD ആണെന്ന് കാണിക്കുകയും ചെയ്യുന്നു സി ഈക്വൽ റ്റു പ്ലസ് മൈനസ് ഐ ഡിഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു സി പ്ലസ് മൈനസ് ഐഡിക്ക് തുല്യമാകുമ്പോൾ സിഎഫ് 0 ഈക്വൽ റ്റു ഡിജി 0 എന്ന് നമുക്കറിയാം അതായത് എഫ് 0 ഈക്വൽ റ്റു പ്ലസ് മൈനസ് ജി 0 സി ഡി എന്നിവ ഒരേ സംഖ്യയുടെ പ്ലസ് മൈനസ് ആണ് നിങ്ങൾ സി റദ്ദാക്കുന്നു മാത്രമല്ല ഒരേയൊരു പ്രശ്നം f 0 മൈനസ് g 0 ആണ് അല്ലെങ്കിൽ f 0 യഥാർത്ഥത്തിൽ g 0 ന് തുല്യമായിരിക്കാം എന്നാൽ വാസ്തവത്തിൽ ഇപ്പോൾ നമുക്കറിയാം f ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് f 0 ആണ് g 0 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് എന്തുകൊണ്ടാണത് എഫ് 0 ജി 0 എന്നിവ പ്രിമിറ്റീവ് പോളിനോമിയലുകളായതിനാലാണിത് നിർവചനം അനുസരിച്ച് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലിന് പോസിറ്റീവ് ലീഡിങ് കോഎഫിഷ്യന്റ് ഉണ്ട് f 0 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് g 0 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് അതായത് f 0 g 0 ക്കു തുല്യമാണ് അവ പരസ്പരം നെഗറ്റീവ് ആകാൻ കഴിയില്ല കാരണം f 0 മൈനസ് g 0 ഉം ആണെങ്കിൽ f 0 റിലേറ്റീവ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ g 0 ന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയിരിക്കണം കാരണം 2 X സ്ക്വയർ മൈനസ് 7 എക്സ് പ്ലസ് 1 ഈക്വൽ റ്റു എഫ് 0 ഉം ജി 0 മൈനസ് എഫ് 0 ഉം ആണെങ്കിൽ അത് മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 7 എക്സ് മൈനസ് 1 ആയിരിക്കും പക്ഷേ ലീഡിങ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ് അത് പാടില്ല അതുകൊണ്ട് f 0 ഈക്വൽ റ്റു g 0 ആയിരിക്കണം f 0 g 0ക്ക് തുല്യമാണ് ഇത് സംഭവിച്ചുകഴിഞ്ഞാൽ c യും d ന് തുല്യമാണ് കാരണം cf 0 ഈക്വൽ റ്റു dg 0 ആണ് f 0 ഉം g 0 ഉം തുല്യമാണ് അതിനാൽ c ഉം d ഉം തുല്യമാണ് ആദ്യം നമ്മൾ പറഞ്ഞത് സി ഡി എന്നിവ പരസ്പരം നെഗറ്റീവ് ആകാം എന്നാണ്പക്ഷെ അത് സംഭവിക്കാൻ കഴിയില്ല C എന്നത് d ക്ക് തുല്യമാണെന്ന് നമ്മൾ നിഗമനം ചെയ്തു ഏതെങ്കിലും ആർബിട്രറി റാഷണൽ പോളിനോമിയലിനെ അതിന്റെ കണ്ടെന്റ് ഇന്റു ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് പ്രകടിപ്പിക്കുന്നത് യൂണീക്ക് ആണെന്ന് ഇത് കാണിക്കുന്നു ഈ പ്രെപോസിഷന്റെ തെളിവാണ് ഇത് അതിനാൽ ഈ പ്രെപൊസിഷൻ തെളിയിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത ഈ ഉദാഹരണത്തിൽ ഈ പ്രത്യേക ഇന്റീജർ റാഷണൽ പോളിനോമിയൽ സി 1 ബൈ 12 ഉം എഫ് 0 പ്രിമിറ്റീവ് പോളിനോമിയലും ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽനമ്മൾ ഇപ്പോൾ കാണിച്ചത് മറ്റൊരു പദപ്രയോഗം ഇല്ല എന്നതാണ് കണ്ടന്റ് ഒരു റാഷണൽ സംഖ്യ ഇന്റു ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ ആയി എഴുതുമ്പോഴെല്ലാം ആ റാഷണൽ സംഖ്യ 1 ബൈ 12 ആയിരിക്കണം ആ പ്രിമിറ്റീവ് പോളിനോമിയൽ ഈ എക്സ് പവർ 4 മൈനസ് 2 എക്സ് ക്യൂബ് ആയിരിക്കണം അതിനാൽ പൊതുവെ എല്ലാ റാഷണൽ പോളിനോമിയലുകളെയും അതിന്റെ കണ്ടന്റിന്റെ ഒരു പ്രോഡക്ട് ആയി എഴുതാൻ കഴിയും അത് ഒരു റാഷണൽ സംഖ്യയും ഒരു പ്രിമിറ്റീവ് പോളിനോമിയലും ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തെളിവ് പൂർണ്ണമല്ല എഫ് എക്സ് ഇസഡ് എക്സിലാണെങ്കിൽ മാത്രമേ സി ഇസഡിലാകുകയുള്ളു എന്നും തെളിവ് പറയുന്നു ഇത് ഇപ്പോൾ എളുപ്പമാണ് കാരണം നമ്മൾ എഫ് ഈക്വൽ റ്റു സി ടൈംസ് എഫ് എന്ന് എഴുതിയിട്ടുണ്ട് f ZX ൽ ആണെന്ന് കരുതുക f ZX ൽ ആണെങ്കിൽ f 0 എന്നത് ZX ലുണ്ട് അതിനർത്ഥം f 0 ക്ക് പൊതുവായ ഘടകങ്ങളില്ല f 0 യുടെ കോഎഫിഷ്യന്റ്സിന് പൊതുവായ ഘടകങ്ങളില്ല അതിനാൽ സി എന്നത് ഒരു പൂർണ്ണസംഖ്യയല്ലെങ്കിൽ സിക്ക് 1 അല്ലാത്ത ഒരു ഡിനോമിനേറ്റർ ഉണ്ട് എന്നാൽ എഫ് 0 ഉള്ള ഏതെങ്കിലും ഘടകങ്ങളാൽ ഡിനോമിനേറ്റർ റദ്ദാക്കാൻ കഴിയില്ല അതുകൊണ്ട് സി ഇസഡിൽ ആയിരിക്കണം കാരണം സി Z ൽ ഇല്ലെങ്കിൽ അത് f എന്നത് Z X ൽ ഉണ്ടെന്ന വസ്തുത ലംഘിക്കുന്നു അതുപോലെ c Z ൽ ആണെങ്കിൽ അത് എളുപ്പമാണ് C Z f 0 ലും ZX ലും ആണെങ്കിൽ fZX ൽ ആണ് ഇത് ഇപ്പോൾ തെളിവ് പൂർത്തിയാക്കുന്നു നിങ്ങൾ ഒരു റാഷണൽ പോളിനോമിയൽ എടുക്കുക അതിന്റെ കണ്ടെന്റ് പൂർണ്ണസംഖ്യയാണെങ്കിൽ റാഷണൽ പോളിനോമിയൽ യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണസംഖ്യയാണ് അതുപോലെ നിങ്ങൾ ഒരു ഇന്റീജർ പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ കണ്ടെന്റ് പൂർണ്ണസംഖ്യയായിരിക്കണം അതാണ് നമ്മൾ കാണിച്ചത് അതിനാൽ ഞാൻ വീഡിയോ ഇവിടെ നിർത്തട്ടെ ഈ വീഡിയോയിൽനമ്മൾ പ്രിമിറ്റീവ് പോളിനോമിയലുകൾ നിർവചിച്ചു കൂടാതെ ഗോസ്സ് ലെമ്മ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം നമ്മൾ തെളിയിച്ചു അത് പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെ പ്രോഡക്ട് പ്രിമിറ്റീവ് ആണെന്ന് പറയുന്നു തുടർന്ന് ഓരോ റാഷണൽ പോളിനോമിയലിനെയും ഒരു റാഷണൽ സംഖ്യ ടൈംസ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് എഴുതാമെന്നും നമ്മൾ തെളിയിച്ചു ആ റാഷണൽ സംഖ്യയെ കണ്ടെന്റ് എന്ന് വിളിക്കുന്നു ഞാൻ അന്തിമ പരാമർശം നടത്തും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തതെല്ലാം ഇസഡ് മാത്രമല്ല ഏത് യുഎഫ്ഡിയിലേക്കും ഉപയോഗിക്കാം എന്നതാണ് നിങ്ങൾക്ക് ഏത് യുഎഫ്ഡി ആർ ഉപയോഗിച്ചും ഇസഡ് മാറ്റിസ്ഥാപിക്കാം കൂടാതെ ഇന്ന് നമ്മൾ നൽകിയ എല്ലാ നിർവചനങ്ങളും സിദ്ധാന്തങ്ങളും അതിൽ ഉപയോഗിക്കാം അടുത്ത വീഡിയോയിൽ അവസാനമായി തെളിയിക്കുന്നത് ZX ഒരു UFD ആണെന്നും R സാധാരണയായി UFD ആണെങ്കിൽ RX ഒരു UFD ആണെന്നും ആണ്